ന്യൂക്ലിയർ മെക്കാനോട്രാൻസ്ഡ്ക്ഷൻ ലിങ്ക് കോംപ്ലക്സ്സെൽ മൈഗ്രേഷൻ ഹലോ ഇന്നത്തെ പ്രഭാഷണമായ പ്രവർത്തന ജീവശാസ്ത്രത്തിൻറെ മെക്കാനോബയോളജിയുടെ ആമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാന ക്ലാസ്സിൽ നമ്മൾ മർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി കോശത്തിലെ കേന്ദ്രഭാഗം ഏതാണ് കോശവൈവിധ്യം പോലെയുള്ള പ്രക്രിയകളിൽ ജീൻ എക്സ്പ്രഷനെ ഓണാക്കുന്ന സിഗ്നലിങ് പോയിൻറ് ആയി ഇത് പ്രവർത്തിക്കുന്നു നമ്മൾ മർമ്മത്തിന്റെ ഘടനയെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി ഈ സാഹചര്യത്തിൽ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് പ്രോട്ടീനുകളായ ലാമിനുകളെ കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്കു പരിചയപ്പെടുത്തി ഈ ലാമിനുകൾ ലിങ്ക് കോംപ്ലക്സിന്റെ ഭാഗമാണ് ലിങ്ക് എന്നാൽ ലിങ്കർ ഓഫ് ന്യൂക്ലിയർ സ്കെലട്ടെൻ ആൻഡ് സൈറ്റോസ്കെലട്ടെൻ ആണ് മർമ്മത്തിന് രണ്ട് സ്തരങ്ങളുണ്ട് ആന്തരമർമസ്തരം അഥവാ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെൻ ബാഹ്യമർമസ്തരം അഥവാ ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെൻ ഇന്നർ ന്യൂക്ലിയർ മെംബ്രേയ്യന് അടിയിലായി രണ്ട് ലാമിൻ നെറ്റ്വർക്കുകൾ ഉണ്ട് ലാമിൻ എ സി യും ലാമിൻ ബി യും Lamin AC and Lamin B ബി പ്രോട്ടീൻ ഒന്നുകിൽ ബി 1 അല്ലെങ്കിൽ ബി 2 ആകാം മർമ്മത്തിനു പുറത്തായി നിങ്ങൾക്ക് സൈറ്റോസ്കെലട്ടെൻ നെറ്റ്വർക്ക് ഉണ്ട് നെസ്പ്രിനുകളിൽ കൂടി ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് മർമ്മത്തിൻറെ ആന്തര ഭാഗവും ബാഹ്യഭാഗവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു ലാമിനുകൾ ഹെറ്ററോക്രോമറ്റിനുമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് പലതരത്തിലുള്ള എൻഇപി അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് പ്രോട്ടീനുകൾ ഉണ്ട് ഉദാഹരണത്തിന് എമറിൻ സൺപ്രോട്ടീനുകൾ Emerin SUN Proteins etc മുതലായവ ഈ പ്രോട്ടീനുകൾ ക്രോസ് സിഗ്നലിംഗിലും ലിൻക് കോംപ്ലക്സിലും പങ്കെടുക്കുകയും ഒരു ഫോഴ്സ് ട്രാൻസ്ഡ്യൂസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബലം ചെലുത്തുന്നത് മൂലം ഈ നെറ്റ്വർക്കിനകത്ത് പല തരം പ്രോട്ടീനുകൾ അൺഫോൾഡിങ്ങിനു വിധേയമാകുന്നു ഇത് ലാമിൻ എ യെ ബലപ്പെടുത്തുന്നു തന്മൂലം ക്രോമസോം സ്ട്രെച്ചിങ് നടക്കുകയും ചെയ്യുന്നു കലകളുടെ ഇലാസ്തികതക്കനുസരിച്ച് ലാമിൻ എ യും ലാമിൻ ബി യും Lamin AB തമ്മിലുള്ള അനുപാതം വ്യത്യാസപ്പെടുന്നു എന്ന് നമ്മൾ ഈ പേപ്പർ ചർച്ച ചെയ്തതിലൂടെ മനസ്സിലാക്കിയതാണ് ഓക്കേ ലാമിൻ എ യും ലാമിൻ ബി യും തമ്മിലുള്ള അനുപാതം Lamin AB ഇയുടെ പവർ 0 6 ആയാണ് സ്കെയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇ എന്നത് കലകളുടെ ഇലാസ്റ്റികത ആണ് ഉദാഹരണത്തിന് മീസെൻകൈമൽ മൂലകോശങ്ങളിൽ ലാമിൻ എ ടു ബി അനുപാതം വളരെ കൂടുതലാണ് പേശികലകളിലോ ഹൃദയത്തിലോ ശ്വാസകോശത്തിലോ ഈ അനുപാതം മിതമായ അളവിലാണ് അതേസമയം മസ്തിഷ്കത്തിലെ നാഡീ കോശങ്ങളിൽ ഈ അനുപാതം കുറവാണ് ലാമിൻ എ ടു ബി അനുപാതം കുറവാണെന്ന് ഞാൻ പറയുമ്പോൾ അത് 1 ൽ താഴെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിച്ച മറ്റൊരു വശം ലാമിൻ ഫോസ്ഫോറിലേഷനും കാഠിന്യവും വിപരീതാനുപാതത്തിലാണ് എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കഠിന പ്രതലത്തിൽ വളർത്തിയെടുക്കുന്ന കോശങ്ങളിൽ ഫോസ്ഫോറിലേഷൻ കുറവാണ് അതിനാൽ കഠിന പ്രതലത്തിൽ സെറീൻ 22 ൻറെ ഫോസ്ഫോറിലേഷൻ കുറവാണ് പക്ഷേ മൃദുപ്രതലത്തിൽ ഫോസ്ഫോറിലേഷൻ കൂടുതലാണ് കോശത്തിനകത്തെ ന്യൂക്ലിയസ്സുകളുടെ വലിപ്പം നോക്കിയാൽ ഭ്രൂണമൂലകോശത്തിൽ അതിൻറെ മൊത്തം വ്യാപ്തിയുടെ 90 ശതമാനവും ന്യൂക്ലിയസ് ആണ് അതേസമയം ഡിഫറെൻഷിയേറ്റ് ചെയ്ത കോശമായ ഫൈബ്രോബ്ലാസ്റ്റിൽ ഇത് 10 മുതൽ 15 ശതമാനമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഒരു ഭ്രൂണമൂലകോശത്തിൻറെ ന്യൂക്ലിയസ് ഇങ്ങനെയായിരിക്കും ഇവിടെ സൈറ്റോസ്കെലട്ടെൻ നെറ്റ്വർക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഒരു ഗമേറ്റിൽ ന്യൂക്ലിയസ് ഇരിക്കുന്ന സ്ഥലമാണിത് താരതമ്യേന ഒരു ഫൈബ്രോബ്ലാസ്റ്റിൽ ന്യൂക്ലിയസ് മധ്യഭാഗത്താണ് ഇരിക്കുന്നത് അതിനാൽ വളരെ കുറച്ച് സ്ഥലമെ എടുക്കുന്നുള്ളൂ കൂടാതെ സൈറ്റോസ്കെലട്ടെൻ നാരുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദത്തിനു വിധേയമാകുന്നതിനാൽ ഇത് വളരെ നീളമുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് ന്യൂക്ലിയസിനെ താഴേക്ക് തള്ളുന്നു പെരിന്യൂക്ലിയർ ആക്റ്റിൻ ക്യാപ്പുകളാണ് ന്യൂക്ലിയസിനെ താഴേക്ക്തള്ളുന്നതെന്നു തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ന്യൂക്ലിയസിന്റെ രൂപമാറ്റം കണക്കിലെടുക്കുമ്പോൾ മൂല കോശങ്ങളിലാണ് ന്യൂക്ലിയർ ഡിഫോർമബിലിറ്റി കൂടുതലെന്ന് ഒരാൾക്ക് സങ്കല്പിക്കാം ഭ്രൂണമെടുത്താൽ ഡിഫോർമബിൾ ന്യൂക്ലിയസ്സുകൾക്ക് യഥാർത്ഥത്തിൽ പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യാനോ ഞെരുങ്ങി ഇറങ്ങാനോ കഴിയും എങ്ങനെയാണ് ന്യൂക്ലിയർ ഡിഫോർമിറ്റി മൂലകോശങ്ങളിലും വൈവിധ്യവൽക്കരണം കഴിഞ്ഞ കോശങ്ങളിലും വ്യത്യാസപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ലളിതമായ ഒരു പരീക്ഷണ സജ്ജീകരണം ഉപയോഗിക്കാം അതായത് മൈക്രോപിപറ്റ് ആസ്പിറേഷൻ പരീക്ഷണസജ്ജീകരണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ മർമ്മത്തോടുകൂടിയ ഒരു കോശം എടുക്കുക ഒരു മൈക്രോപിപറ്റ് ഉപയോഗിച്ചുകൊണ്ട് കോശത്തെ ഒരു മർദ്ദത്തിന് വിധേയമാക്കുക അപ്പോൾ ഒരു മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നു സമയം കഴിയുന്തോറും കോശത്തിലും ന്യൂക്ലിയസിലും മാറ്റമുണ്ടാകുന്നു കോശത്തിന് ഇതുപോലൊരു ആകൃതി ഉണ്ടാകും ന്യൂക്ലിയസിനും ഇത്തരത്തിൽ രൂപ വ്യത്യാസമുണ്ടാകും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് കോശത്തിന്റെ ഈ നീളവും ന്യൂക്ലിയസ് മൈക്രോപിപ്പറ്റിലേക്ക് പ്രവേശിച്ച നീളവും ആണ് ന്യൂക്ലിയസ് കൂടുതൽ ഡിഫോർമബിൾ ആകുന്നതാണ് ഇതിനുത്തമം നിങ്ങൾ മൈക്രോ പിപ്പറ്റ് ഉപയോഗിച്ച് വലിച്ചെടുക്കുമ്പോൾ സൈറ്റോപ്ലാസത്തെ പോലെ ന്യൂക്ലിയസും അകത്തേക്ക് നീങ്ങും ഈ ഡിഫോർമബിലിറ്റിയെ ഒരു ഫങ്ക്ഷനായി ട്രാക്ക് ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് എൽ എൻ ബൈ എൽ സി LNLC അനുപാതത്തെ വൈവിധ്യവൽക്കരണത്തിന്റെ പ്രവർത്തനമായി ട്രാക്ക് ചെയ്യാം ഇവിടെ കാണിച്ചിരിക്കുന്നത് വൈവിധ്യവൽക്കരണത്തിന്റെ പ്രവർത്തനമാണ് തുടക്കത്തിൽ അതായത് ന്യൂക്ലിയസ് പ്ലൂറിപൊട്ടൻറ് അവസ്ഥയിലായിരിക്കുമ്പോൾ എൽ എൻ ബൈ എൽ സി LNLC പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അനുപാതം 0 9 ൽ കൂടുതലാണ് പക്ഷേ കോശങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പെട്ടെന്ന് കുറയുന്നു 8 ദിവസം ആകുമ്പോൾ ഇത് വളരെ കുറഞ്ഞ് 0 2ൽ എത്തുന്നു അതിനാൽ ഡിഫറെൻഷിയേഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസ് കൂടുതൽ സ്റ്റിഫ് ആകുമെന്ന് ഇത് തെളിയിക്കുന്നു ന്യൂക്ലിയസ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റിഫ് ആകുന്നുവെങ്കിൽ സെൽ മൈഗ്രേഷനുമായി ഇതിനുള്ള ബന്ധം എന്താണ് മൃദുവായ ന്യൂക്ലിയസ് എന്നാൽ കോശം കൂടുതൽ ഇൻവേസിവ് ആണെന്നാണ് 3 ഡി മാട്രിക്സുകളിൽ കൂടി കോശങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ മാട്രിക്സിലെ സുഷിരങ്ങൾ വഴി കോശം ഊർന്ന് ഇറങ്ങേണ്ടതുണ്ട് മാട്രിക്സിന്റെ സാന്ദ്രത കൂടുതലാണെങ്കിൽ ന്യൂക്ലിയസിന് ഞെരുങ്ങി ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് മാട്രിക്സിൽ കൂടി കോശങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെങ്ങനെ എന്നതിനെക്കുറിച്ച് ഫ്രീഡലും വുൾഫും ഒരു സെമിനൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് അവർ ഉയർന്ന ഗാഢതയിലുള്ള കൊളാജൻ ജെല്ലിൽ കൂടിയുള്ള സെൽ മൈഗ്രേഷൻ ട്രാക്ക് ചെയ്തു കൂടാതെ കോശങ്ങൾ മാട്രിക്സ് മെറ്റാലോപ്രോട്ടീനേസസ് അഥവാ എം എം പി എൻസൈമുകളെ ഉല്പാദിപ്പിക്കുകയാണെങ്കിൽ മാട്രിക്സിന്റെ ഗാഢത ഒരു പ്രശ്നമല്ല കാരണം എം എം പി കൾ മാട്രിക്സിനെ ഡീഗ്രേഡ് ചെയ്തു മാട്രിക്സിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു കോശങ്ങൾക്ക് ഊർന്നിറങ്ങാൻ പറ്റുന്നത്ര വലിപ്പമുള്ളതാണ് ഈ ദ്വാരങ്ങൾ എന്നിരുന്നാലും എം എം പി ഇൻഹിബിറ്ററുകളുടെ സാന്നിദ്ധ്യം ഇതിനെ തടസ്സപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ജിഎം 6001 ഒരു ബ്രോഡ് സ്പെക്ട്രം എം എം പി ഇൻഹിബിറ്റർ ആണ് ഈ ഇൻഹിബിറ്ററുകളുടെ സാന്നിദ്ധ്യം മൈഗ്രേഷന്റെ വേഗത കുറയ്ക്കുന്നു കൂടാതെ അൺഡീഫോമിഡ് ന്യൂക്ലിയർ ക്രോസ് സെക്ഷന്റെ 10 ശതമാനത്തിൽ താഴെ വലിപ്പമുള്ള സുഷിരങ്ങളും വേഗത കുറയ്ക്കുന്നു പൂർണമായും മൈഗ്രേഷൻ തടയപ്പെടുന്നു അതായത് കോശങ്ങൾ പൂർണമായും സ്റ്റക്ക് ആവുന്നു അതിനാൽ ഈ പരിധിയെ രചയിതാക്കൾ ന്യൂക്ലിയർ ഡിഫോർമേഷൻ പരിധി എന്നാണ് വിളിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ന്യൂക്ലിയസിന് ഒരിക്കലും അതിൻറെ യഥാർത്ഥ അൺഡീഫോമഡ് ക്രോസ് സെക്ഷണൽ ഏരിയയുടെ 10 ശതമാനത്തിൽ താഴെയായി രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല ഈ ആശയത്തോട് ചേർന്നുനിന്നുകൊണ്ട് ല്യൂക്കോസൈറ്റുകളുടെയോ ഡെൻഡ്രൈറ്റിക്ക് കോശങ്ങളുടെയോ ന്യൂക്ലിയുസുകളെകുറിച്ച് പറഞ്ഞാൽ അവ ലാമിൻ എ യോ സിയോ LaminAC എക്സ്പ്രസ്സ് ചെയ്യുന്നില്ല ഇത് ന്യൂക്ലിയസിനെ കൂടുതൽ രൂപമാറ്റമുള്ളതാക്കി മാറ്റുന്നു ല്യൂക്കോസൈറ്റുകൾക്ക് കലകൾക്കകത്ത് എല്ലായിടത്തും പോകാൻ കഴിയും അതിനാൽ ലാമിൻ അളവും ന്യൂക്ലിയസിന്റെ സ്റ്റിഫ്നെസ്സും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇത് ന്യൂക്ലിയസിന്റെ മൈഗ്രേഷൻ കഴിവിനെ സ്വാധീനിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാം ഇത് പരീക്ഷിച്ചറിയുന്നതിനായി ഞാൻ ഈ പേപ്പർ ചർച്ച ചെയ്യാം എന്താണ് രചയിതാക്കൾ ചെയ്തതെന്നുവച്ചാൽ മൂന്നു വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ എ 549 മെസെൻകൈ൦ ഭ്രൂണകോശം യു 251 A 549 Mesenchyme stem cell U 251 എന്നിവ എടുത്തു ഈ മൂന്നു കോശങ്ങൾക്കും വ്യത്യസ്ത എ ബി A B ratio അനുപാതമാണ് ഉള്ളത് എ 549 ന് ഇത് 2 3 ആണ് മെസെൻകൈ൦ ഭ്രൂണകോശത്തിന് എ ടു ബി അനുപാതം വളരെ കൂടുതലാണ് 8 ആണ് അനുപാതം കൂടാതെ യു 251 ന് 0 8 ആണ് അനുപാതം ഈ കോശങ്ങളിൽ എ ടു ബി അനുപാതം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതേ സമയം ബി യുടെ അനുപാതം അതായത് ബി 1 ഉം ബി 2 ഉം തമ്മിലുള്ള അനുപാതം ഏകദേശം താരതമ്യപ്പെടുത്താതാവുന്നതാണ് അവർ ട്രാൻസ്ഫർ മൈഗ്രേഷൻ സുഷിരങ്ങൾ ഉപയോഗിച്ചു കോശങ്ങളെ പ്ലേറ്റ് ചെയ്തു അതിനു മുകളിലായി സിറത്തിന്റെ ഒരു ഗ്രേഡിയന്റ് വച്ചു ഇത് കോശങ്ങളെ ഞെരുക്കുന്ന ഒരു ക്യുമുലേറ്റ് ആക്റ്റീവ് ക്യൂബായി പ്രവർത്തിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുഷിരത്തിന്റെ വലിപ്പം കുറയ്ക്കുക സുഷിരത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിന്റെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടുo തമ്മിൽ ഒരു ഐഡിയൽ കണ്ടീഷനിൽ യാതൊരു വ്യത്യാസവുമില്ല പക്ഷേ സുഷിരത്തിന്റെ വലിപ്പം 3 മൈക്രോൺ എന്ന ഓർഡറിൽ ആണെങ്കിൽ യഥാർത്ഥ ചിത്രം ഏതാണ്ട് ഇതുപോലെയാണ് ഇത് നിങ്ങളുടെ ന്യൂക്ലിയസാണ് സുഷിരത്തിൽ കൂടി ഊർന്നിറങ്ങാൻ വേണ്ടി ന്യൂക്ലിയസ് സാരമായ രീതിയിൽ രൂപമാറ്റം വരുത്തേണ്ടതുണ്ട് അവർ അതേ എണ്ണം കോശങ്ങൾ മുകളിൽ പ്ലേറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് നിങ്ങളുടെ സുഷിരങ്ങളുടെ മുകൾഭാഗം ഇത് സുഷിരങ്ങളുടെ അടിഭാഗം ആണ് എന്നിട്ട് അടിഭാഗത്ത് എത്ര എണ്ണം കോശങ്ങളുണ്ട് എന്ന് അവർ കണക്കാക്കി അവർ കണ്ടെത്തിയത് എന്താണെന്നുവച്ചാൽ യു 251 കോശങ്ങളിൽ ലാമിൻ എ ബി അനുപാതം ഏറ്റവും കുറവാണ് അതിനാൽ കൂടുതൽ കോശങ്ങൾ കടത്തിവിടാൻ സാധിക്കുന്നതുകൊണ്ട് ഇവിടെയാണ് കൂടുതൽ കോശങ്ങൾ കാണുന്നത് എന്നാൽ എ 549 കോശങ്ങളിൽ ലാമിൻ എബി അനുപാതം വളരെ കൂടുതലായതുകൊണ്ട് കോശങ്ങൾ കടത്തിവിടുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇതാണ് അടിയിലെ കോശങ്ങളുടെ എണ്ണം യു 251 കോശങ്ങളിലെ മൈഗ്രേഷൻ പരമാവധി കാര്യക്ഷമമാണ് കാരണം അവിടെ ലാമിൻ എ യും ബി യും തമ്മിലുള്ള അനുപാതം വളരെ കുറവാണ് കൂടാതെ ഈ കോശങ്ങൾ വളരെ മൃദുവാണ് സുഷിരത്തിനടിയിലെ ന്യൂക്ലിയസുകളെ അവർ നിരീക്ഷിച്ചപ്പോൾ മിക്കവാറുമുള്ള ന്യൂക്ലിയസുകളെല്ലാം ബ്ലെബുകൾ Blebs പ്രകടിപ്പിക്കുന്നു ഇതാണ് ന്യൂക്ലിയസുകളുടെ സാധാരണ ആകൃതി എന്നാൽ സുഷിരങ്ങളിൽ കൂടി സഞ്ചരിച്ചതിനുശേഷം ന്യൂക്ലിയസിന്റെ ആകൃതി ഇങ്ങനെയായിരിക്കും ഇത് ന്യൂക്ലിയർ ബ്ലെബുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് പൊതുവെ എ ബി നെറ്റ്വർക്കിൽ ലാമിൻ എ യും ബി യും അടുത്തടുത്താണ് ഇരിക്കുന്നത് പക്ഷേ ഈ ന്യൂക്ലിയസുകളിൽ എയും ബിയും വേർതി രിഞ്ഞാണ് നിൽക്കുന്നത് ഒന്നാമതായി ഈ കോശങ്ങളിലെ ന്യൂക്ലിയസ് നീളമേറിയവ മാത്രമല്ല നിങ്ങൾക്ക് വിചിത്രമായ ആകൃതിയിലുള്ള ന്യൂക്ലിയസുകളും ലാമിൻ എ ബി എന്നിവയുടെ വേർതിരിയലും ഉണ്ടാകുന്നു ലാമിൻ എയുടെയും ബിയുടെയും ഈ വേർതിരിവ് മൂന്ന് മൈക്രോൺ വലിപ്പമുള്ള സുഷിരങ്ങളിലാണ് കാണാൻ കഴിയുന്നത് ഇത് 8 മൈക്രോൺ വലിപ്പമുള്ള സുഷിരങ്ങളിൽ കാണുന്നില്ല എന്നാൽ സുഷിരങ്ങൾ വളരെയധികം വലുതായതിനാൽ ന്യൂക്ലിയസിന് കൂടുതൽ രൂപമാറ്റം ആവശ്യമില്ല ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാമിൻ എ ബി അനുപാതം കുറയുന്നത് യഥാർഥത്തിൽ ന്യൂക്ലിയസ്സുകളുടെ മൈഗ്രേഷന് സഹായിക്കുന്നുവെന്നും മൈഗ്രേഷന്റെ സമയത്ത് ന്യൂക്ലിയസിന്റെ ആകൃതിയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നുവെന്നും ഇത് മൈഗ്രേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ആണ് പിന്നീടവർ ന്യൂക്ലിയസിനെ താരതമ്യം ചെയ്തു നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ന്യൂക്ലിയർ ആകൃതി ഉണ്ടെങ്കിൽ വൃത്താകൃതി അളവ് ഉപയോഗിച്ച് ആകൃതി ട്രാക്ക് ചെയ്യാൻ കഴിയും ഇത് 1 ന്റെ മൂല്യത്തിലാണ് പറയുന്നത് ഇതിൻറെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിരിക്കും ഒന്ന് എന്നാൽ പെർഫക്ട് സർക്കിൾ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ലാമിൻ എ ബി അനുപാതം കുറഞ്ഞ യു 251 കോശങ്ങളിൽ മുൻപും പിന്നീടും താഴെയും മുകളിലും വൃത്താകൃതി മാറ്റമില്ലാതെ തുടരുന്നു പക്ഷേ മീസെൻകൈമൽമൂലകോശങ്ങളിൽ താഴത്തെ കോശങ്ങൾ കൂടുതൽ നീളമേറിയതാണ് ലാമിൻ എ യുടെ അളവിനനുസരിച്ച് സ്റ്റിഫ്നെസ്സിൽ ഉണ്ടാകുന്ന ഈ മാറ്റം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നിർദ്ദേശിക്കുന്നതെന്താണെന്നുവെച്ചാൽ ലാമിൻ എ ഒരു വിസ്കസ് ഡാംപർ ആയും ലാമിൻ ബി ഇലാസ്റ്റിക് സ്പ്രിംഗായുമാണ് പ്രവർത്തിക്കുന്നത് യു 251 കോശങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ച് താഴെ വന്നാൽ ഉടൻ തന്നെ അവർ അവയുടെ പൂർവ രൂപം വീണ്ടെടുക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് എ ബി അനുപാതം 0 8 ആയത് ഇത് ഒന്നിൽ കുറവാണ് അതിൻറെ അർത്ഥം ഈ കോശങ്ങളിൽ ലാമിൻ ബി യുടെ അളവ് കൂടുതലാണ് ഈ കോശങ്ങളിലെ വൃത്താകൃതിയിൽ മാറ്റൊമൊന്നുമില്ല എന്നാൽ മീസെൻകൈമൽ മൂലകോശങ്ങളിലും എ 459 കോശങ്ങളിലും ലാമിൻ എ ബി അനുപാതം വളരെ കൂടുതലാണ് ഇത് ന്യൂക്ലിയസിൻറെ ആകൃതിയിൽ ഗണ്യമായ കുറവുണ്ടാക്കി ലാമിൻ ബി എന്നത് സ്പ്രിംഗ് ആണ് ലാമിൻ എ ഈ ഡാഷ് ബോർഡ് ആണ് ലാമിൻ ബി നെറ്റ്വർക്കിന് രൂപമാറ്റം സംഭവിച്ചതിനുശേഷം വീണ്ടും തിരിച്ച് പഴയതുപോലെ ആകാൻ സാധിക്കും കാരണം ഇതൊരു ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ആണ് അതായത് ഈ രൂപമാറ്റം തിരിച്ച് പഴയപടിയാക്കാം എന്നാൽ വിസ്കസ് ഡാംപർ ആയ ലാമിൻ എ നെറ്റ്വർക്കിന്റെ രൂപമാറ്റം വീണ്ടും പഴയപടി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല അതായത് വീണ്ടെടുക്കാനാവാത്ത രൂപമാറ്റവുമുണ്ട് നിങ്ങൾക്ക് രണ്ടു വ്യത്യസ്തതരത്തിലുള്ള രൂപമാറ്റം കാണാം അതായത് പോപ്പുലേഷനിൽ വൈവിധ്യം ഉണ്ടെന്ന് അവർ നിരീക്ഷിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലും താഴെയും കോശങ്ങളുണ്ട് ഈ കോശങ്ങളുടെ വൃത്താകൃതി എങ്ങനെയാണെന്ന് പരിശോധിച് അവർ കണ്ടെത്തി താഴെയുള്ള കോശങ്ങൾ മുകളിലുള്ള കോശങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ലാമിൻ എ അനുപാതമാണ് കാണിക്കുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്ന കോശങ്ങളിൽ പോലും ലാമിൻ എ യുടെ അളവ് 3 ഡി മൈഗ്രേഷനിൽ വേർതിരിയാൻ കാരണമാകുന്നു മുകളിൽ കാണുന്ന കോശങ്ങളിൽ ലാമിൻ എയുടെ അളവ് വളരെ കൂടുതലാണ് ലാമിൻ എ കുറഞ്ഞ അളവിൽ കാണുന്ന മൈഗ്രേറ്റ് ചെയ്ത താഴെക്കാണുന്ന കോശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുകളിലെ കോശങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കുറഞ്ഞ ലാമിൻ എ എക്സ്പ്രഷൻ ഉള്ള കോശങ്ങൾ അപ്പോപ്റ്റോസിസിനുള്ള പ്രവണതയും കാണിക്കുന്നു മൈഗ്രേഷനു ശേഷം ക്ലീവഡ് കാസ്പേസ് 3 ന്റെ സഹായത്തോടുകൂടിയാണ് അപ്പോപ്റ്റോസിസ് നടത്തുന്നത് താഴ്ന്ന അളവിലുള്ള ലാമിൻ എ മൈഗ്രേഷന് ആവശ്യമാണ് എന്നാൽ ഈ മൈഗ്രേഷൻ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുകയും ഇത് അപ്പോപ്റ്റോസിസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇത് സൂചിപ്പിക്കുന്നത് രൂപമാറ്റത്തിന് ലാമിൻ എ കുറഞ്ഞ അളവിൽ ആവശ്യമാണെന്നാണ് പക്ഷേ ലാമിൻ എ യുടെ അളവ് കുറയുന്നതുമൂലം കോശങ്ങൾ പെട്ടെന്ന് കോശമരണത്തിന് വിധേയമാകുന്നു ലാമിൻ എക്ക് ഒരു സംരക്ഷണ കർത്തവ്യം കൂടിയുണ്ട് ന്യൂക്ലിയസിനെ കേടുപാടുകളിൽ നിന്ന് ലാമിൻ സംരക്ഷിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി ലാമിൻ എ യുടെ അളവ് എസ് ഐ ആർ എൻ എ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചാൽ ഈ കോശങ്ങളിൽ ഡിഎൻഎ ഡാമേജ് അല്ലെങ്കിൽ ഡിഎൻഎ റിപ്പയറുമായി ആയി ബന്ധപ്പെട്ട ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ആയ എച്ച്എസ്പി 90 ന്റെ അളവ് ഗണ്യമായി കുറയുന്നു അതായത് എസ് ഐആർഎൻഎ ലാമിൻ എ യുടെ അളവ് കുറയ്ക്കുകയും ഇത് കോശങ്ങളിലെ HSP90 ന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ കോശങ്ങൾക്ക് കൂടുതൽ ഡിഎൻഎ ഡാമേജ് വരുക മാത്രമല്ല സ്വയം അത് റിപ്പയർ ചെയ്ത് പ്രതിരോധിക്കാനുള്ള കഴിവും നഷ്ടപ്പെടുന്നു ലാമിൻ എ യുടെ കുറഞ്ഞ അളവ് മൈഗ്രേറ്ററി പൊട്ടൻഷ്യൽ കൂട്ടുന്നു പക്ഷേ സമ്മർദ്ദം മൂലം ഇത് കോശമരണത്തിനു കാരണമാകുന്നു അതുകൊണ്ട് പ്രധാനമായും നിങ്ങൾ ലാമിൻ എ യുടെ അളവ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട് അതുവഴി നിങ്ങൾക്ക് രൂപമാറ്റം വരുത്താം തന്മൂലം മൈഗ്രേറ്റ് ചെയ്യാം കോശമരണവും സംഭവിക്കുന്നില്ല ഈ നിരീക്ഷണങ്ങൾ മിക്കവാറുമുള്ള ക്യാൻസർ കോശങ്ങളുടേതുമായി ഒത്തു പോകുന്നുണ്ട് ഈ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷനെ താരതമ്യപ്പെടുത്തുന്ന ഒരു പഠനം നടത്തി ക്യാൻസർ കോശങ്ങളിലെ ലിങ്ക് പ്രോട്ടീനുകൾ എങ്ങനെയാണ് ഈ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷനെ മാറ്റപ്പെടുത്തുന്നതെന്ന്എം സി എഫ് 10 എ എം സി എഫ് 7 എം ഡി എ കൂടാതെ എം ഡി 231 MCF 10A MCF7 MDA and MD 231 എന്നീ ക്യാൻസർ സെൽലൈനുകളെ താരതമ്യപ്പെടുത്തി ആണ് പഠനം നടത്തിയത് ഈ സാധാരണ മെമ്മറി എപ്പിത്തീലിയൽ കോശങ്ങൾ കുറഞ്ഞ മെറ്റാസ്റ്റാറ്റിസ് ആണ് കാണിക്കുന്നത് എന്നാൽ ഇത് വളരെ മെറ്റാസ്റ്റാറ്റിക് ആണ് കൂടാതെ കോശങ്ങൾ കൂടുതൽ കൂടുതൽ മെറ്റാസ്റ്റാറ്റിക് ആകുംതോറും ലിങ്ക് പ്രോട്ടീന്റെ എക്സ്പ്രഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടാതെ സൺ 1 2 SUN 12 നെസ്പ്രിൻ 2 ലാമിൻ എ സി Lamin AC എന്നീ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷനും കുറയുന്നു ഈ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷൻ കുറയുന്നുണ്ടെങ്കിലും ന്യൂക്ലിയസിന്റെ മയപ്പെടുത്തൽ സെൽമൈഗ്രേഷന് പര്യാപ്തമല്ല അതുകൊണ്ട് അധിക ശക്തികൾ ചെലുത്തിയാൽ മാത്രമേ ന്യൂക്ലിയസിന്റെ രൂപമാറ്റം നടത്താൻ സാധിക്കൂ ന്യൂക്ലിയർ ട്രാൻസ്ലോക്കേഷന് മയോസിൻ II ബി ആവശ്യമാണെന്ന് അടുത്തിടെ തെളിയിച്ച ഒരു പഠനം ഉണ്ട് അവർ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ മയോസിൻ II ബിയുടെ അളവ് കുറച്ചപ്പോൾ ശരാശരി ന്യൂക്ലിയർ ഉയരം വർദ്ധിച്ചു ഇത് പരോക്ഷമായ ഒരു സൂചന ആയിരുന്നു മയോസിൻ II ബി കുറച്ചാൽ ന്യൂക്ലിയസ്സുകൾ വളരെ നേർത്തതാവും എന്നാൽ ന്യൂക്ലിയസ് വലുതാണെങ്കിൽ സുഷിരത്തിൽ കൂടി ഊർന്നിറങ്ങാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ കെട്ടികിടക്കൽ ഉണ്ടാവും എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ ഗ്രേഡിയന്റിനെതിരായുള്ള സെൽ മൈഗ്രേഷൻ അവർ ട്രാക്ക് ചെയ്തു എവിടെയൊക്കെയാണോ ന്യൂക്ലിയസ് ഈ സുഷിരങ്ങളിൽ കൂടി കടന്നുപോകാൻ ശ്രമിച്ചത് അവിടെയൊക്കെ ന്യൂക്ലിയസിനു പുറകിലായി മയോസിൻ II ബി ശേഖരിക്കപ്പെട്ടു പിന്നിലായി മയോസിൻ II ബി ഉണ്ട് ഈ മയോസിൻ II ബി ശരിക്കും ന്യൂക്ലിയസിനെ ഞെരുക്കുകയാണ് ചെയ്യുന്നത് ന്യൂക്ലിയസിൻറെ മൃദുവാകൽ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ന്യൂക്ലിയസിനെ മുന്നോട്ടു വലിക്കാൻ മയോസിൻ വഴിയുണ്ടാകുന്ന ബലം ആവശ്യമാണ് ഇതോടു കൂടി ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ക്ലാസ്സിനായി നിരവധി വായനാ അസൈൻമെന്റുകൾ ഉണ്ട് ന്യൂക്ലിയസ്സുകളെ 10 ശതമാനത്തിനപ്പുറം രൂപമാറ്റം വരുത്താൻ കഴിയില്ലെന്ന് കാണിക്കുന്ന ഫിസിക്കൽ ലിമിറ്റിനെ കുറിച്ച് പറയുന്ന പേപ്പറാണിത് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്ത പേപ്പറാണിത് ന്യൂക്ലിയസിനെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് മയോസിൻ II ബി ആവശ്യമാണെന്ന് കാണിക്കുന്ന ഒരു സമീപകാല പ്രബന്ധമാണിത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു